ഏവർക്കും വീണ്ടും സെൽ കൾച്ചർ ടെക്നോളജി എന്ന കോഴ്സിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ ആദ്യത്തെ ആഴ്ചയിലെ രണ്ടാമത്തെ ക്ലാസ്സ് ആണ് ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞപോലെ നമ്മൾ ഒരു ടിഷ്യൂ ശരീരത്തിനകത്ത് നിന്ന് എടുത്തത് പുറത്തേക്ക് കൊണ്ടു വന്നു വളർത്താൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്തെന്നാൽ ഇൻവിട്രോ കണ്ടീഷനിൽ ആ സെല്ലുകൾക്ക് അ ശരീരത്തിന് അകത്തുള്ള അവസ്ഥ പ്രധാനം ചെയ്യുക എന്നുള്ളതാണ് എങ്കിൽ മാത്രമേ അത് വിജയകരമാവുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് വളരെ ലളിതമായ കാര്യമാണ് ഉദാഹരണത്തിന് ഇത് ശരീരത്തിന് അകത്തുള്ള ഒരു ടിഷ്യു ആണ് അതായത് ഞാൻ ഇപ്പോൾ ഹൃദയത്തിൻറെ ടിഷ്യു പുറത്തേക്ക് എടുക്കുകയാണ് ഇതാണ് ഹൃദയം ഇതാണ് ഞാനെടുത്ത കാർഡിയോമയോസൈറ്റ് ടിഷ്യു ബയോളജി പശ്ചാത്തലം ഇല്ലാത്തവർക്കായി കാർഡിയോ എന്നാൽ ഹൃദയത്തിൻറെ മയോസൈറ്റ്സ് 'മയോ' എന്നാൽ മസിൽ 'സൈറ്റ്സ്' എന്നാൽ സെൽ ഇതാണ് കാർഡിയോമയോസൈറ്റ് പദത്തിൻറെ അർത്ഥം വികസിപ്പിക്കണം എന്നാണ് ബയോളജി മേഖലയിൽ ഉള്ളവർക്ക് അറിയുന്നുണ്ടാകും ഗ്യാപ് ജംഗ്ഷൻ എന്നാൽ ട്യൂബ് പോലത്തെ ഘടനയുള്ള വസ്തുക്കളാണ് ബയോളജി ഇതര മേഖലയിൽ ഉള്ളവർക്കായി ഉദാഹരണത്തിന് ഇവിടെ രണ്ടു മുറികൾ ഉണ്ടെന്ന് വിചാരിക്കുക എളുപ്പത്തിന് ഞാൻ വരച്ചു കാണിക്കാം ഇതാണ് ഒരു മുറി ഇതാണ് അടുത്തുള്ള മുറി ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു കണക്ടർ കൊടുത്താൽ ഈ രണ്ടു റൂമുകളും തമ്മിൽ പരസ്പരം ബന്ധപ്പെടാം ഇത്തരം കണക്ടർനെ വിളിക്കുന്ന സാങ്കേതിക പദമാണ് ഗ്യാപ് ജംഗ്ഷൻ അവ മറ്റൊന്നല്ല വെറും മെംബ്രൺ പ്രോട്ടീനുകളാണ് കാർഡിയാക് സെല്ലുകളുടെ ഒരു സവിശേഷതയാണ് ഒരുപാട് ഗ്യാപ്പ് ജംഗ്ഷനുകൾ അതിനു പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട് അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ഗ്യാപ്പ് ജംഗ്ഷൻ വളരെ പ്രധാനമാണ് കാരണം അവ ഇലക്ട്രിക്കൽ പ്രസരണം ഇതുപോലെ വിവിധ ദിശകളിലേക്ക് വിതരണം ചെയ്യുന്നു അതുകൂടാതെ ഗ്യാപ് ജംഗ്ഷൻ ഒരു ഗേറ്റ് ആയും നോൺ ഗേറ്റ് ആയും പ്രവർത്തിക്കാം അവയ്ക്ക് ഒരു ദിശയിലേക്ക് മാത്രമായി ആയി തുറക്കാം അല്ലെങ്കിൽ ഇരു ദിശകളും ഉണ്ടാകാം അതിനാൽ ഞാൻ ആദ്യം പ്രതീക്ഷിക്കുന്നത് കാർഡിയാക് സെല്ലുകൾ അടുത്തുവന്നു ചേർന്നു അവയ്ക്കിടയിൽ ഗ്യാപ് ജംഗ്ഷനുകൾ ഉണ്ടാകുന്നതാണ് അപ്പോൾ അടുത്തത് ഉണ്ടാകാൻ പോകുന്നത് ഈ സെല്ലുകൾ ഇങ്ങനെ ഇതുപോലെ അടുത്ത് വന്ന് അവയ്ക്കിടയിൽ ഗ്യാപ് ജംഗ്ഷൻ രൂപപ്പെടുന്നു അടുത്തതായി നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് തൊട്ടു നോക്കൂ ഹൃദയമിടിപ്പ് കേൾക്കുന്നില്ലേ ഇത് സൂചിപ്പിക്കുന്നത് ഈ സെല്ലുകൾ രണ്ടുതരം ദൌത്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നാണ് അതായത് അവർ ഇലക്ട്രിക്കലും മെക്കാനിക്കലുമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നു ഈ ഇലക്ട്രിക്കലും മെക്കാനിക്കലുമായ പ്രവർത്തികൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലാതെ ഇവ രണ്ടും സ്വതന്ത്ര പ്രവർത്തികൾ അല്ല ഞാൻ ഇത് മാത്രമേ ചെയ്യുകയുള്ളൂ മറ്റൊന്ന് ചെയ്യുകയില്ല എന്ന രീതിയിൽ അല്ല ഇവ രണ്ടും പരസ്പര ബന്ധിതമാണ് ഒരു ഇലക്ട്രിക്കൽ ഇൻപൾസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് മെക്കാനിക്കൽ ചലനങ്ങൾ മിടിപ്പുകൾ ഉണ്ടാകുന്നു അതിനാൽ ഈ സെല്ലുകൾ ശരീരഘടനയുടെ പുറത്ത് വളരണമെങ്കിൽ ഇത്തരം ഇലക്ട്രോകെമിക്കൽ ഇവൻറുകൾ അനുകരിക്കാൻ പറ്റിയ സാഹചര്യങ്ങൾ ഒരുക്കേണ്ടി വരും ശരീരത്തിനകത്ത് വെച്ച് ചെയ്യുന്ന അതേ ഇലക്ട്രോ കെമിക്കൽ പ്രവർത്തികൾ പുറത്തെ സാഹചര്യങ്ങളിലും ചെയ്യാൻ ആ സെല്ലുകൾക്ക് സാധിക്കണം ഒരു പൂർണതോതിലുള്ള സാമ്യം ഉണ്ടാകണമെന്നില്ല ചില വ്യതിയാനങ്ങൾ ഉണ്ടാകാംഅവ എത്രത്തോളമുണ്ടെന്ന് കണക്കാക്കണം ഇത് നെഗറ്റീവായ ഒരു കാര്യമല്ല ഒരു പോസിറ്റീവ് രീതിയിൽ എടുത്താൽ അടിസ്ഥാന തത്വങ്ങളിൽ ഊന്നിയാണ് നിലകൊള്ളുന്നത് അടിസ്ഥാനം അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഒരു സ്വപ്നലോകത്താണ് ജീവിക്കുന്നുണ്ടാവുക ഞാൻ പറയുകയാണെങ്കിൽ അടിസ്ഥാനമറിയാതെയാണ് പലരും കടന്നു പോകുന്നത് അപ്പോൾ ആദ്യം ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ പ്രവൃത്തി ഉണ്ടാക്കും അതിൻറെ ആദ്യത്തെ തെളിവ് ആ സെല്ലുകൾ ഒരു മൈക്രോസ്കോപ്പിൻറെ അടിയിൽ വെച്ചാൽ നമുക്ക് ലഭിക്കും അത് മിടിക്കുന്നുണ്ടെങ്കിൽ ആ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അർത്ഥം അത് മിടിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാകുന്നു എന്നാണ് അർത്ഥം ഫോഴ്സിനെ പറ്റി പറയുമ്പോൾ അതൊരു ന്യൂട്ടൻ വാല്യൂയാണ് അത് പൈകോ ന്യൂട്ടൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും യൂണിറ്റ് ആകാം അത് വീണ്ടും യഥാർത്ഥ ശാരീരിക അവസ്ഥയോട് എത്രത്തോളം ചേർന്നിരിക്കുന്നു എന്ന് പറയുന്നു അതായത് ശരീരത്തിനു പുറത്തേക്ക് എടുക്കുന്ന ടിഷ്യു ശരീരത്തിനകത്തുള്ള പോലെ തന്നെ പെരുമാറണം ഹൃദയമിടിപ്പ് നിയന്ത്രിക്കുന്നത് രണ്ടു പ്രധാന ഹൃദയപ്രോട്ടീനുകലാണ് ആക്ടിനും മയോസിനും രണ്ടിനും രണ്ട് വ്യത്യസ്ത നിറങ്ങൾ നൽകുകയാണ് ഓറഞ്ചും പച്ചയും എത്ര ഫോഴ്സ് ഉണ്ടാകുന്നു എന്നതനുസരിച്ച് മയോസിൻ പലതരത്തിലുണ്ട് മറ്റൊരുതരത്തിൽ പറഞ്ഞാൽ എൻറെ സ്കേലേറ്റൽ മസിലിലുള്ള മയോസിൻ ഫോഴ്സ് ഡയനാമിക്സ് കാർഡിയാക് മയോസിനിൽ നിന്നും വ്യത്യസ്തമായിരിക്കും മസിലിൻറെ ഉള്ളിൽ ചില ഘടനകൾ ഉണ്ട് മസിൽ സ്പിൻഡിൽ പോലുള്ളവ അവയുടെ രീതികളും പെരുമാറ്റവും മയോസിൻ പ്രോപ്പർട്ടികളിൽ നിന്നും വ്യത്യസ്തമാണ് നിങ്ങളുടെ ഇവിടെ വൻ കുടൽ ചെറുകുടൽ തുടങ്ങിയവയുടെ ഉള്ളിലെല്ലാം ഉള്ള സ്മൂത്ത് മസിലുകളിൽ മയോസിനുകളുണ്ട് ഇതിലൂടെയാണ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമെല്ലാം പോകുന്നത് കാണുന്ന സെല്ലുകൾ അവയിൽ ഏത് മയോസിനാണ് എന്ന് പ്രകടിപ്പിച്ചാൽ മാത്രമേ അവയ്ക്ക് ശരീരത്തിനുള്ളിൽ ഉള്ള പോലെ ഫോഴ്സ് ഉണ്ടാക്കാൻ സാധിക്കു അപ്പോൾ ഈ ശാരീരികഘടനയുടെ പുറത്ത് നമ്മൾ ഒരു വസ്തുവിനെ വളർത്തുമ്പോൾ ഉദാഹരണത്തിന് ഈ ഭൂമിയിൽ നിങ്ങൾ ഒരു വസ്തു വളർത്തുകയാണ് വളരെ വ്യത്യസ്തമായ പരിസ്ഥിതിയിലാണ് നിങ്ങൾ അവയെ വളർത്തുന്നത് അതിന് ആ പരിസ്ഥിതിയെ പറ്റി യാതൊരു വിവരവും ഉണ്ടാവില്ല ഒരു നിമിഷം ഇതിനെപ്പറ്റി ചിന്തിച്ചു നോക്കൂ ഇപ്പോൾ ഈ ഹൃദയത്തിനെ തന്നെ എടുത്താൽ അവയിൽ കാർഡിയോ മയോസൈറ്റുകൾ മാത്രമല്ല ഉള്ളത് ഹൃദയത്തിൽ എന്റോതെലിയൽ സെല്ലുകൾ അടങ്ങിയിരിക്കുന്നു തുടർന്ന് വാൽവുകൾ രൂപപ്പെടുന്ന കോശങ്ങളുണ്ട് രക്തക്കുഴലുകളുണ്ട് സിമ്പതെറ്റിക് പാരസിമ്പതെറ്റിക് ഞരമ്പുകൾ അല്ലെങ്കിൽ ഓട്ടോണോമിക്ഞരമ്പുകൾ സ്റ്റെം സെല്ലുകൾ കാർഡിയാക് സ്റ്റെപ്സെല്ലുകൾ എന്നിവ ഉണ്ട് അപ്പോൾ നിങ്ങൾ പുറത്തേക്കെടുക്കുന്ന കാർഡിയോ മയോസൈറ്റുകൾക്ക് ചുറ്റും ധാരാളം കോശങ്ങളുണ്ട് നിങ്ങൾക്ക് ഇതിനെ ഇത്തരത്തിൽ നിറയെ വീടുകളുള്ള ഒരു കാർട്ടൂന്നായി സങ്കൽപ്പിക്കാം ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ ഞാൻ പല നിറങ്ങളുള്ള വീടുകൾ വരയ്ക്കുകയാണ് ഇതൊരു കോളനി പോലെയാണ് ഓരോ വീടിനും ഓരോ നിറം എന്നാൽ ചില വീടുകൾക്ക് ഒരേ നിറമാണ് നിങ്ങൾക്ക് ഇവിടെ ചുവപ്പ് കാണാം പച്ച കാണാം നീല വീട് വരെ കാണാം ഇപ്പോൾ എനിക്ക് ഈ വീടുകൾ ഒറ്റയ്ക്കായി ഈ സിസ്റ്റത്തിന് ഈ അവസ്ഥയ്ക്ക് പുറത്താണ് പഠിക്കേണ്ടത് ഇവയെല്ലാം നമുക്ക് പഠിക്കാം പക്ഷേ ഈ വീടുകളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഉദാഹരണത്തിന് നമ്മൾ ചുവന്ന വീടുകൾ ഒറ്റയ്ക്ക് പുറത്ത് എടുത്താണ് പഠിക്കുന്നതെങ്കിൽ തീർച്ചയായും കുറച്ച് സിഗ്നലുകളുടെ കുറവ് കാണിക്കും ഇതൊരു തെറ്റല്ല നമ്മൾ വളർത്തുന്നത് ഒരു അക്യൂട്ട് സിസ്റ്റം ആണ് എല്ലാം തമ്മിലുള്ള ബന്ധം പൂർണ്ണതോതിൽ നമുക്കറിയില്ല അതിനാൽ തന്നെ പരിപൂർണ്ണത വരണമെന്നില്ല അത് സ്വാഭാവികവുമാണ് എന്നാൽ ഇവയെല്ലാം വേർപെടുത്തി പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ട് താനും ഇതിനും അപ്പുറത്തേക്ക് നമ്മൾ ഭാവനയിൽ കാണുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഈ പിങ്ക് വീടുകൾ ചുവന്ന വീടുകളുമായി x എന്ന മാധ്യമത്തിലൂടെ ബന്ധപ്പെടുന്നു എന്ന് വിചാരിക്കുക ഇതാണ് ഞാൻ ഭാവനയിൽ കാണുന്ന ഹൈപോതെസിസ് അതായത് പിങ്ക് കളർ വീട്ടിൽ നിന്ന് x എന്ന വസ്തു ചുവന്ന വീട്ടിലേക്ക് കൊടുക്കുമ്പോൾ എന്തോ ഉണ്ടാകുന്നു ഒരു മേൽക്കൂരയോ മറ്റോ എങ്ങനെയാണ് ഇതെനിക്ക് തെളിയിക്കാൻ സാധിക്കുക എന്താണ് ഞാൻ ചെയ്യുക ഇതിനായി ഞാൻ ആദ്യം x എന്താണെന്ന് കണ്ടുപിടിക്കണം എന്നിട്ട് അത് പുറത്തെ വ്യവസ്ഥയിൽ വീട് വളർത്തുമ്പോൾ അതിലേക്ക് നൽകണം അവിടെ അതേ മേൽക്കൂര ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് അർത്ഥം മറിച്ചാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയതിലും സങ്കീർണമാണ് കാര്യങ്ങൾ ടിഷു കൾച്ചർ സെൽ കൾച്ചർ എന്നിവയെല്ലാം അക്യൂട്ട് സിസ്റ്റങ്ങൾ ആണ് ഇത്തരത്തിലാണ് നമ്മൾ ഇവയിലെ പ്രശ്നങ്ങളെ നോക്കിക്കാണേണ്ടത് വളരെ കരുതലോടെ വേണം ഈ വിവരങ്ങളെ വിശകലനം ചെയ്യാൻ മുൻപ് പറഞ്ഞതിൽ നിന്നും വിപരീതമായ ഒരു അവസ്ഥയാണ് എന്ന് വിചാരിക്കുക അതായത് പിങ്ക് വീട് x വസ്തു ഉണ്ടാക്കിയാൽ ചുവന്ന വീടിന് രണ്ടാമതൊരു മേൽക്കൂര ഉണ്ടാവുകയില്ല എന്നാണെങ്കിൽ നമ്മൾ അവയെ ഒറ്റയ്ക്ക് വളർത്തിയാൽ രണ്ടാമത്തെ മേൽക്കൂര ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കണം അതായത് x കോമ്പൌണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ് മുകളിൽ പറഞ്ഞ പോലെ വിപരീതമായ അവസ്ഥയിൽ നിങ്ങൾ x കോമ്പൌണ്ട് കൊടുക്കുകയാണെങ്കിൽ അവിടെ അത്തരം വളർച്ച കാണാൻ പാടില്ല അപ്പോൾ ഈ പ്രക്രിയകളെല്ലാം നിങ്ങൾ അന്ധമായി ചെയ്യുകയാണെങ്കിൽ അതായത് അതിനെ വെറും ടെക്നിക്കായി മാത്രം കാണുകയും അതിൽ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കാതിരിക്കുകയും ചെയ്താലും നിങ്ങൾക്ക് എന്തെങ്കിലും ഫലം കിട്ടും എന്നാൽ അവ അവ്യക്തവും മറ്റുള്ളവർക്കു ആവർത്തിക്കാനോ അനുകരിക്കാനോ സാധിക്കാത്തതുമായിരിക്കും അതായത് നമ്മൾ ഒരു ഉപകരണം ഉപയോഗിക്കുന്നതിനു മുമ്പ് അത് ഇൻ വൈവോ കണ്ടീഷന്നോട് എത്രത്തോളം അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം ചില വിഭാഗം ആളുകളുണ്ട് അവർ സെല്ലിനെ ഒരു ബയോ റിയാക്ടർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അവർ എന്താണ് ചെയ്യുന്നത് എല്ലാവർക്കും ആൻറിബോഡിയെ പറ്റി അറിയാമായിരിക്കുമല്ലോ ഉദാഹരണത്തിന് ഇത് റെഡ് സെല്ലുകളുടെ ഒരു വകഭേദമാണ് എന്ന് വിചാരിക്കുക അവർ ആൻറി ബോഡീകളെ ഉണ്ടാക്കി ഞാൻ എന്താ ചെയ്തെന്നു വെച്ചാൽ അവയെ പുറത്തെടുത്ത് ഏതെല്ലാം അവസ്ഥയിലാണ് അവർ z ഫംഗ്ഷനൽ ആൻറി ബോഡീസ് ഉണ്ടാക്കുക എന്ന് മനസ്സിലാക്കി ഇവിടെ ഞാൻ സെല്ലിനെ ഒരു സാമ്പിൾ ബയോറിയാക്ടറായി ഉപയോഗിക്കുകയാണ് അത്തരത്തിൽ നിരവധി പഠനങ്ങൾ ബയോടെക്നോളജി രംഗത്ത് നടത്തിയിട്ടുണ്ട് എന്നാൽ എണ്ണ ഉൽപാദന സമയത്ത് ആൽഗകളെ ബയോ റിയാക്ടറായി ഉപയോഗിച്ചു വരുന്നു അവ ഓയിൽ അഥവാ എണ്ണയെ വേർതിരിക്കാൻ സഹായിക്കുന്നു നമ്മൾ അതിനെ പറ്റി കൂടുതൽ വേവലാതിപ്പെടുന്നില്ല എന്തെന്നാൽ നമ്മുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ് നമ്മൾ അവയെ ഒരു ഉപകരണമായി മാത്രമാണ് കാണുന്നത് xyz കോമ്പൌണ്ടസ് വ്യാവസായികമായി ഉണ്ടാക്കുന്ന ഒരു ലളിതമായ ഉപകരണം അതിനാൽ നിങ്ങൾ എന്താണ് ആവശ്യപ്പെടുന്നതെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യവും ഇവിടെ മറ്റൊരു കാര്യവും നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ ഞാൻ ഇത് പറയുമ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ ഈ സങ്കീർണ്ണ ചിത്രം ഉണ്ടാക്കി ഇത് നിങ്ങളോട് പറഞ്ഞു ഇതാണ് യഥാർത്ഥ സാഹചര്യം അതിനാൽ നിങ്ങളുടെ കൾച്ചർ എത്ര ദൂരെയാണ് നിങ്ങൾ ചോദിക്കേണ്ട അടിസ്ഥാന ചോദ്യം എന്തെന്നാൽ ഇൻവിട്രോ സെൽ കൾച്ചർ സിസ്റ്റം ഇൻ വൈവയോട് എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇതാണ് ആദ്യത്തെ സാഹചര്യം രണ്ടാമത്തേത് എന്തെന്നാൽ മൃഗ കോശങ്ങളെ സെൻസറുകളായി ഉപയോഗിക്കുക എന്നതാണ് എന്താണ് സെൻസർ നമ്മുടെ ഒട്ടുമിക്ക സെല്ലുകളും പലവിധ വിഷവസ്തുക്കളോടും സെൻസിറ്റീവാണ് അപ്പോൾ ഈ കൾച്ചർ ഡിഷിൽ ഞാൻ വിഷവസ്തുക്കൾ ചേർക്കുകയാണ് അത് എങ്ങനെയാണ് പ്രതികരിക്കുക എന്നെനിക്കറിയാം ശരിക്കുമുള്ള അവസ്ഥയിൽ ഈ വിഷവസ്തു എന്താണ് ചെയ്യുന്നത് എന്ന് ഉറപ്പില്ല അതിനാൽ തന്നെ അത് മനസ്സിലാക്കാൻ ഞാൻ ഈ സെല്ലിനെ ഒരു സെൻസർ ആയി ഉപയോഗിക്കുന്നു ഇതാണ് നിങ്ങളുടെ സെൽ ഞാനതിനെ ഒരു സെൻസർ സിസ്റ്റമായി ഉപയോഗിക്കുകയാണ് ഇപ്പോൾ എനിക്ക് xyz കോമ്പൌണ്ടസ് ഉണ്ട് അതുകൂടാതെ കുറേ ഔട്ട്പുട്ട്കളും ഉണ്ട് അവ ഇലക്ട്രികലാകാം കെമിക്കലാകാം അല്ലെങ്കിൽ ഫിസിക്കൽ പാരാമീറ്ററുകളും ആകാം അതുപോലെ തന്നെ പ്രോട്ടീനുകളെയോ മറ്റ് തന്മാത്രകളെയോ കുറയ്ക്കുന്നതിനോ കൂട്ടത്തോടെ ഉൽപാദിപ്പിക്കുന്നതിനോ എനിക്ക് മൃഗകോശങ്ങൾ ഉപയോഗിക്കാം അതിനാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സെല്ലുകൾക്ക് ശരിയായ വ്യവസ്ഥകൾ നൽകി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മോളിക്യൂൾസ് ഉത്പാദിപ്പിക്കാൻ സെൽ കൾച്ചറിലൂടെ പഠിക്കണം ഇതിൻറെ എല്ലാം ടെക്നിക്കുകൾ ഒന്നുതന്നെയാണ് എന്നാൽ ശരിയായ ചോദ്യങ്ങൾ തന്നെ ചോദിക്കണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി രണ്ടു വശങ്ങളുണ്ട് ഒന്നിനെ A എന്നും മറ്റൊന്നിനെ B എന്നു വിളിക്കാം ഞാൻ ഇതിനെയൊരു റീജനറേറ്റീവ് മെഡിസിൻ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് ഇന്നത്തെ ഏറ്റവും ഫാഷനബിൾ ആയ ഒരു വിഷയമാണ് അതുകൂടാതെ സ്റ്റെം സെൽ ഡിഫറെന്റിയേഷൻ തെറാപ്പിയും മറ്റും കൃത്രിമ അവയവ നിർമ്മാണത്തിലേക്ക് വരെ വഴികാട്ടുന്നു ഒട്ടുമിക്കവരും വെറുമൊരു ടെക്നിക്കായി കണക്കാക്കുന്ന ഇത് എനിക്ക് ഞാൻ പിൻതുടരുന്ന ഒരു വിഷയമാണ് ഇതിൻറെ ഫിലോസഫി വ്യക്തമായി മനസ്സിലാക്കിയില്ലെങ്കിൽ ഇതിൻറെ ശക്തി മനസ്സിലാക്കുക ബുദ്ധിമുട്ടാണ് എന്നെ വിശ്വസിക്കുക ഇതിൽ അതിശയകരമായ ശക്തിയുണ്ട് എന്നാൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന പൂർണ്ണ ധാരണ ഉണ്ടാവണം ഈ കോഴ്സ്സ് ഇങ്ങനെ പരിചയപ്പെടുത്തുന്നതിൻറെ ഉദ്ദേശം എന്തെന്നാൽ അല്ലെങ്കിൽ നിങ്ങൾ ലാബിൽ പോയി വെറുതെ കണ്ടു മനസ്സിലാക്കി ഇങ്ങനെയാണ് സെൽ കൾച്ചർ എന്ന രീതിയിൽ ഇതിൽ ടെക്നിക്കായി മാത്രം കാണും ആ മനസ്ഥിതിയിൽ നിന്ന് നമുക്ക് പൂർണമായി പുറത്തു കടക്കാം എന്നിട്ട് ഇതിനെ മറ്റൊരുതരത്തിൽ നോക്കി കാണാം ഇതിന് ഇന്ന് ഒരു ഘടനയെ ഉണ്ടാക്കാൻ പറ്റും എന്ന് ഭാവനയിൽ കാണുക നമുക്ക് അടുത്ത തലമുറയിലെ സെൻസറുകകളെ ഉണ്ടാക്കാം നമുക്ക് ഏറ്റവും തുച്ഛമായ വിലയിൽ സെൻസറുകകളെ ഉണ്ടാക്കാം അതുകൂടാതെ നമ്മുടെ തന്നെ ആൻറിബോഡികളെ കൃത്രിമ പരിസ്ഥിതിയിൽ ഉണ്ടാക്കിയെടുക്കാം ഇതിനും അപ്പുറത്തേക്ക് ചിന്തിക്കാം ഈ സെല്ലുകളെ ഒരു ഉപകരണമായി ഉപയോഗിക്കാം നമ്മൾ അവയെ നിയന്ത്രിക്കുന്നു എന്താണ് ചെയ്യേണ്ടതെന്ന് അവരോടു പറയുന്നു DNAയുടെ ഏതു ഭാഗമാണ് ട്രാൻസ്ക്രൈബ് ചെയ്യേണ്ടതെന്ന് പറയുന്നു ഈ പരിമിതികൾക്കുള്ളിൽ തന്നെ സെൽ എഞ്ചിനീയറിംഗ് ചെയ്യാൻ നമുക്ക് കഴിയും ഈ പ്രതീക്ഷയോടെ അടുത്ത ക്ലാസ്സിലേക്ക് പോവുകയാണ് ഇതിനെ പറ്റിയുള്ള ഉള്ള കൂടുതൽ വിവരങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം ഈ ചിത്രങ്ങളിൽ നിന്നു തന്നെ തുടങ്ങാംഒരു കൃത്രിമ സിസ്റ്റം അല്ലെങ്കിൽ ഇൻവിവോ സിസ്റ്റത്തെ പറ്റി പറയുമ്പോൾ എന്തെല്ലാമാണ് കണക്കിലെടുക്കേണ്ടത് പിന്നെ ഇതിനുപിന്നിലെ ബയോളജിക്കൽ പാരാമീറ്റർ എന്തെല്ലാമാണ് എന്നിവയെല്ലാം പറയാം ഞാൻ ഈ കോഴ്സ് കൂടുതൽ ലളിതവും ജനറിക്കുമാക്കാൻ ശ്രമിക്കാം എന്തെന്നാൽ മറ്റു മേഖലയിലുള്ളവർക്കും ഇത് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും അതിനാൽ തന്നെ പരമാവധി സാങ്കേതികപദങ്ങൾ ഒഴിവാക്കി ലളിതമായ പദങ്ങൾ ഉപയോഗിക്കാൻ ഞാൻ ശ്രമിക്കാം അഥവാ സാങ്കേതിക പദങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഞാൻ അതിവിടെ എഴുതാം